ഹലോ 'സോഫ്റ്റ് സ്കിൽസിനെ' കുറിച്ചുള്ള എൻ പി ടി ഇ എൽ ഓൺലൈൻ ലക്ച്ചറുകളിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ മുമ്പത്തെ ലക്ച്ചറിൽ നമ്മൾ ബിസിനസ് കത്തുകളെ കുറിച്ചും അവയുടെ ഘടനയെക്കുറിച്ചും സംസാരിച്ചു ലക്ച്ചറിന്റെ അവസാനത്തോടടുത്ത് നമ്മൾ വിനയമാണ് ബിസിനസ് കത്തുകളുടെ ഹാൾമാർക്ക് അഥവാ മുഖമുദ്ര എന്ന് ചർച്ച ചെയ്തു തീർച്ചയായും ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിനീതരാവാൻ സാധിക്കും എന്നാൽ ഒരു ഉചിതമായ ഘടനയിലൂടെയും നമുക്ക് നമ്മുടെ വിനയവും പരിഗണനയും പ്രകടിപ്പിക്കാവുന്നതാണ് ഈ ലക്ച്ചറിൽ നമ്മൾ ഒരു ഫലപ്രദമായ ബിസിനസ് കത്തിന്റെ ആവശ്യകോപാധികളായ വ്യത്യസ്ത ഘടനകളെയും രൂപങ്ങളെയും കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളോർക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ കത്തെഴുതുന്ന ശീലം ഉള്ളതുകൊണ്ട് അത് പിന്തുടരണം ഇനി വിവിധ സ്ഥാപനങ്ങൾക്ക് അവരുടെ സൌകര്യങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത രീതികളും ഘടനകളും ഉണ്ട് അവർക്കിടയിലുള്ള ശീലങ്ങളെ ആശ്രയിച്ച് വേണം നിങ്ങൾ കത്തിന്റെ ഘടന പിന്തുടരാൻ പക്ഷേ മറ്റ് ഘടനകളെ കുറിച്ച് അറിയുന്നതിന് ദോഷം ഒന്നുമില്ലല്ലോ സാധാരണയായി ഒരു കത്തിന് നാല് ഘടനകളാണുള്ളത് ഒന്നാമത്തേത് ഫുൾ ബ്ലോക്ക് ഫോർമാറ്റാണ് ഇവയോരോന്നും ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ ചർച്ച ചെയ്യും പിന്നീടുള്ളത് മോഡിഫൈഡ് ബ്ലോക്ക് ഫോർമാറ്റാണ് പിന്നെയുള്ളത് സെമി ബ്ലോക്ക് ഫോർമാറ്റാണ് അടുത്തത് സിംപ്ലിഫൈഡ് ഫോർമാറ്റാണ് ഇനി നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഫുൾ ബ്ലോക്ക് ഫോർമാറ്റ് എന്നത് ചർച്ച ചെയ്യാം ഇന്ന് എഴുതപ്പെടുന്ന കത്തുകൾ നോക്കുകയാണെങ്കിൽ അവയുടെ ലേയൌട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നാല് ഘടനകളും നൽകിയിട്ടുള്ളതായിട്ട് കാണാം ആദ്യത്തെ ഫോർമാറ്റ് ഫുൾ ബ്ലോക്ക് ആണ് രണ്ടാമത്തേത് മോഡിഫൈഡും മൂന്നാമത്തേത് ഇന്റന്റഡും നാലാമത്തേത് സിംപ്ലിഫൈഡും ആണ് ഇനി എന്തൊക്കെയാണ് ഒരു ഫുൾ ബ്ലോക്ക് ഫോർമാറ്റിന്റെ സവിശേഷതകൾ ഇക്കാലത്ത് ഒട്ടു മിക്ക സ്ഥാപനങ്ങളിലും ഈ ഫോർമാറ്റ് വളരെ അധികം ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവയെ നാം ഫുൾ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ ഇതുവരെ നമ്മൾ പിന്തുടർന്നിരുന്നത് തീയതി ലെറ്റർ ഹെഡിൽ നിന്നും മാറി വലതു വശത്ത് എഴുതുന്ന രീതിയായിരുന്നു ലെറ്റർ ഹെഡ് ഏത് സ്ഥാനത്താണെങ്കിലും തിയതി എപ്പോഴും വലതു വശത്തായിരുന്നു എഴുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഫുൾ ബ്ലോക്ക് ഫോർമാറ്റ് പ്രകാരം വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മൾ ഇടതുവശം പിന്തുടരുന്ന ആളുകൾ ആയി മാറിയിരിക്കുന്നു ഇതിനർത്ഥം കത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇടതുവശത്തെ മാർജിനിൽ ആണ് ഉണ്ടാവുക ഉദാഹരണത്തിന് നിങ്ങൾ ബിസിനസ് കത്തിന്റെ ഘടന ഓർക്കുന്നുണ്ടെങ്കിൽ തീയതിയാണ് അവിടെ ആദ്യം വരിക അതിനാൽ തീയതി ഇടതുവശത്തായിരിക്കും നൽകുക തീയതിക്ക് തൊട്ടു താഴെ സല്യൂട്ടേഷൻ ആയിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഡേറ്റും സല്യൂട്ടേഷനും സിഗ്നേച്ചർ ലൈനും എൻക്ലോഷറും മറ്റെല്ലാതും ഇടതുവശത്തോട് ചേർന്നായിരിക്കും ഉണ്ടാവുക മാത്രമല്ല കത്തിനകത്ത് പങ്ച്ചുവേഷൻ പാലിക്കുകയില്ല അതിന്റെ ബോഡിയിൽ ഒഴികെ പ്രത്യേകിച്ചും നിങ്ങൾ തീയതി എഴുതുമ്പോൾ അവിടെ കോമ ചേർക്കേണ്ട ആവശ്യമില്ല അതിനു താഴെയായി നിങ്ങൾ ഇൻസൈഡ് അഡ്രസ്സ് എഴുതുകയാണെങ്കിലും പങ്ച്ചുവേഷൻ ഇടേണ്ട ആവശ്യമില്ല അതുകഴിഞ്ഞ് സല്യൂട്ടേഷൻ എഴുതുമ്പോൾ സല്യൂട്ടേഷനിലും നിങ്ങൾ ഡിയർ സാർ എന്നോ ഡിയർ മാഡം എന്നോ എഴുതുമ്പോൾ നിങ്ങൾ ഇടതുവശത്തോട് ചേർന്ന് ഒരു അലൈൻമെന്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും സല്യൂട്ടേഷന് തൊട്ടു താഴെയായി നിങ്ങൾ സബ്ജക്റ്റ് ലൈൻ എഴുതും അതും ഇടതു വശത്തോട് ചേർന്നായിരിക്കും അത് അലൈൻ ചെയ്തതിനുശേഷം നിങ്ങൾ കത്തെഴുതാൻ ആരംഭിക്കും എന്നാൽ ഓർക്കുക ഇൻസൈഡ് അഡ്രസ്സിലും കോംപ്ലിമെന്ററി ക്ളോസിലുമൊന്നും പങ്ച്ചുവേഷൻ ഉണ്ടാകില്ലെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും കത്തിന്റെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓപ്പൺ പങ്ച്ചുവേഷൻ ഉണ്ടാകും ഇന്സൈഡ് അഡ്രസ്സിൽ പങ്ച്ചുവേഷൻ ഒന്നും പാലിക്കേണ്ടതില്ല ബോഡിയിൽ പങ്ച്ചുവേഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഇൻസൈഡ് അഡ്രസ്സിലും കോംപ്ലിമെന്ററി ക്ളോസിലുമൊന്നും ഉണ്ടായിരിക്കില്ല സല്യൂട്ടേഷനും സബ്ജെക്ട് ലൈനും ഇടയിൽ സ്പേസ് അനുവദനീയമാണ് ഉദാഹരണത്തിന് ഇവിടെ ഉള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം മേലെ മധ്യഭാഗത്തുള്ളത് ലെറ്റർ ഹെഡാണ് അതിനു താഴെ നിങ്ങൾക്ക് കാണാനാവുന്നത് തീയതിയാണ് അവിടെ നമ്മൾ പിരീഡോ അതുപോലെ എന്തെങ്കിലോ ചേർക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാം തീയതി എഴുതിയതിനു ശേഷം നമ്മൾ നേരെ ഇൻസൈഡ് അഡ്രസ്സിലേക്ക് വരും ഇൻസൈഡ് അഡ്രസ്സിൽ പങ്ച്ചുവേഷൻ നൽകണമെന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഡിയർ സർ എന്ന് എഴുതും അത് സല്യൂട്ടേഷനാണ് അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് ലൈൻ എഴുതും ഇവിടെ അലൈൻമെന്റ് നിങ്ങൾക്ക് കാണാം അത് ഇടതുവശത്തേക്ക് ചേർന്ന് ആണുള്ളത് ഇനി ഇത് അവസാനിപ്പിക്കാനാകുമ്പോൾ നിങ്ങൾ ഒരു കോംപ്ലിമെന്ററി ക്ലോസ് നൽകുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ യുവേഴ്സ് സിൻസിയർലി എന്നോ യുവേഴ്സ് ഫെയ്ത്ഫുള്ളി എന്നോ എഴുതും അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതും ടൈപ്പ് ചെയ്യും പക്ഷേ പേര് ബ്രാക്കറ്റിനകത്തായിട്ടാണ് വെക്കുക ഇനി നിങ്ങളുടെ പേരിന്റെയും കോംപ്ലിമെന്ററി ക്ലോസിന്റെയും ഇടയിൽ അല്പം സ്പേസ് വേണം ഇവിടെ സ്പേസ് കുറവായതിനാൽ ഞാൻ നൽകിയിട്ടില്ല പക്ഷേ നിങ്ങൾ ഒരു വിടവ് പാലിക്കുന്നതാണ് ഉചിതം ഞാൻ പറയുന്നത് നിങ്ങൾ യുവേഴ്സ് സിൻസിയർലിക്കും അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ക്ലോസിനും വ്യക്തിയുടെ പേരിനുമിടയിൽ ഒരു വിടവ് നൽകേണ്ടതുണ്ട് മിക്ക സാഹചര്യങ്ങളിലും ഇത് എഴുതുന്നത് ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പേരിനു താഴെയായി പദവിയും നൽകാവുന്നതാണ് പ്രിയം സുന്ദർ അദ്ദേഹത്തിന്റെ പദവി ഇത് ഫുൾ ബ്ലോക്ക് ഫോർമാറ്റിന്റെ ഒരു ഉദാഹരണമാണ് മിക്ക സ്ഥാപനങ്ങളും പ്രധാനമായും പിന്തുടരുന്നത് രണ്ട് ഘടനകൾ ആണ് ഒന്ന് ഫുൾ ബ്ലോക്ക് ഫോർമാറ്റാണ് മറ്റൊന്ന് മോഡിഫൈഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ഫോർമാറ്റാണ് ഇവിടെ സെമി ബ്ലോക്ക് എന്ന ഫോർമാറ്റും ഉണ്ടെന്നത് ഓർക്കുക നിങ്ങൾ താഴെ സെമി ബ്ലോക്ക് ഫോര്മാറ്റ് ഉണ്ടെന്നുള്ളത് കണ്ടെത്തും ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണാം ഇതൊരു മിക്സഡ് വേർഷൻ ആണ് ഇവിടെയും ഇൻസൈഡ് അഡ്രസ്സിൽ പങ്ച്ചുവേഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഇവിടെ സല്യൂട്ടേഷൻ ലൈനിലും അതുപോലെ സബ്ജെക്ടിലും പങ്ച്ചുവേഷൻ ഇല്ല ലെറ്റർ ബോഡിയിൽ ഓപ്പൺ പങ്ച്ചുവേഷൻ ഉണ്ട് പിന്നീട് കോംപ്ലിമെന്ററി ക്ലോസിന്റെ സ്ഥാനത്ത് ഈ വ്യക്തി യുവേഴ്സ് ട്രൂലി എന്നെഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നോ മറ്റെന്തെങ്കിലോ കൊടുക്കാം ഞാൻ ഇവിടെ ഭാഷയുടെ വീക്ഷണകോണിൽ നിന്ന് കൊണ്ട് ഇതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല ഇതിന്റെ ഘടനയുടെയും രൂപത്തിന്റെയും വീക്ഷണത്തിനാണ് കൊടുക്കുന്നത് അടുത്തത് മോഡിഫൈഡ് ബ്ലോക്ക് ആണ് ഇവിടുത്തെ ചോദ്യം ഈ ബ്ലോക്കിൽ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇതും ഒരു ബ്ലോക്ക് ഫോർമാറ്റ് തയ്യാറാക്കുന്ന രീതിയിൽ തന്നെയാണ് എഴുതേണ്ടത് പക്ഷേ അത് ബ്ലോക്ക് ആകുന്നത് അതിൽ അഡ്രസ്സും സബ്ജക്റ്റ് ലൈനും സല്യൂട്ടേഷനും ഉള്ളതുകൊണ്ടാണ് അവയെല്ലാം ഇടതുവശത്തെ മാർജിനിൽ ആണ് അലൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ബോഡിയിലെ പാരഗ്രാഫുകളും ബ്ലോക്ക് രൂപത്തിലാണെന്ന് കാണാം ഇനി തീയതിയുടെയും കോംപ്ലിമെന്ററി ക്ലോസിന്റെയും ഒപ്പിന്റെയും കാര്യത്തിലേക്ക് വരുകയാണെങ്കിൽ അവിടെ ഒരു നിശ്ചിത മാർഗ്ഗനിർദ്ദേശം ഒന്നുമില്ല തീയതി എല്ലാ വശത്തും കണ്ടിട്ടുണ്ട് അത് മേൽ ഭാഗത്തായിരിക്കും മേലേ വലതുവശത്ത് ആയിട്ടായിരിക്കും ഇടതുവശത്ത് തന്നെ തീയതി എഴുതണമെന്ന ശീലം ഒന്നും ഇവിടെ ഇല്ല ഇവിടെ തീയതിയും കോംപ്ലിമെന്ററി ക്ലോസും സിഗ്നേച്ചറും ഇത് എഴുതുന്നവർക്ക് നൽകുന്ന ഒരു തരം സൌകര്യമായിരിക്കാം അവ വലതുവശത്തായിട്ടോ വലതുവശത്തോട് ചേർന്നോ ആയിരിക്കാം പക്ഷേ മധ്യഭാഗത്തിനും വലതുവശത്തിനും ഇടയിലായിരിക്കണം ഡേറ്റും കോംപ്ലിമെന്ററി ക്ലോസും സിഗ്നേച്ചറും ചേർക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മോഡിഫൈഡ് ബ്ലോക്ക് ഫോർമാറ്റ് എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് ഇവിടുത്തെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനാകും ഇവിടെ തീയതിയും കോംപ്ലിമെന്ററി ക്ലോസും സിഗ്നേച്ചർ ലൈൻ പോലും വലതുവശത്താണെന്ന് കാണാൻ കഴിയും കൂടാതെ ഇവിടെ ഒരു കോംപ്ലിമെന്ററി ക്ലോസ് ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് അത് നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയോ അല്ലെങ്കിൽ അത് ആശംസകൾ അർപ്പിച്ചു കൊണ്ടുള്ളതോ ആണെങ്കിൽ അവ രണ്ടിന്റെയും ഇടയിലായിട്ട് വരും അവ മധ്യഭാഗത്ത് ആയിട്ടാണ് വരുന്നത് എന്നാൽ അഡ്രസ്സ് ലൈനിന്റെ കാര്യത്തിലേക്കോ ഇൻസൈഡ് അഡ്രസ്സിന്റെ കാര്യത്തിലേക്കോ വരികയാണെങ്കിൽ അത് എല്ലായ്പ്പോഴും ഇടതുവശത്തായിരിക്കും അത് കഴിഞ്ഞ് ഡിയർ സർ എന്നതായിരിക്കും അതിനു ശേഷം താഴെ സബ്ജെക്ട് ലൈൻ ആയിരിക്കും ഈയിടെയായിട്ട് ഡിയർ സാർ എന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഒരു കോളൻ ഇടുന്ന പുതിയ പ്രവണത കണ്ടു വരുന്നുണ്ട് ചില സ്ഥാപനങ്ങളും ഡിയർ എന്നതിനുശേഷം കൊളൻ ഇടാറുണ്ട് പക്ഷെ ഓർക്കുക മറ്റു കാര്യങ്ങളെല്ലാം ഇടതുവശത്തേക്ക് ആയിരിക്കും അലൈൻ ചെയ്യേണ്ടത് കൂടാതെ ബോഡിയിൽ ഓപ്പൺ പങ്ച്ചുവേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് കത്തിന്റെ മോഡിഫൈഡ് ഫോർമാറ്റ് അടുത്തതായി ഇവിടെ വീണ്ടും നൽകിയിട്ടുള്ളതൊരു ഉദാഹരണമാണ് അത് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് തീയതി വലതുവശത്താണ് നൽകിയിട്ടുള്ളതെന്ന് കാണാം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഡേറ്റ് ലൈനും കോംപ്ലിമെന്ററി ക്ലോസും ഇവിടെ കോംപ്ലിമെന്ററി ക്ലോസും അലൈൻ ചെയ്തിട്ടുള്ളതായി കാണാം ഇവിടെ ഡേറ്റ് ലൈനും ക്ലോസും സിഗ്നേച്ചർ ലൈനും ഇടതുവശത്തേക്ക് ഫ്ലഷ് ചെയ്യപ്പെട്ടതായി കാണാം അല്ലാത്ത പക്ഷം അഡ്രസ്സും സല്യൂട്ടേഷനും അത് കഴിഞ്ഞ് സബ്ജക്റ്റും പിന്നീട് കത്തിന്റെ ബോഡിയുമെല്ലാം ഫ്ലഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവയെല്ലാം ബ്ലോക്ക് ഒന്നിൽ ഉള്ളതുപോലെ ഫ്ലഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതു കൊണ്ടുതന്നെ അവ നമ്മൾ പരിഗണിക്കണം അടുത്തത് സെമി ബ്ലോക്ക് ഫോർമാറ്റാണ് സെമി ബ്ലോക്ക് ഫോർമാറ്റിൽ പേര് സെമി ആയിരിക്കും സെമി എന്നാൽ പകുതി അതിനാൽ ഇതും ഹാഫ് ബ്ലോക്ക് മാത്രമായിരിക്കും ഏറെക്കുറെ ഇത് മോഡിഫൈഡ് ബ്ലോക്ക് രൂപത്തോട് സാമ്യമുള്ളതായിരിക്കും ചില കത്തുകളിൽ എഴുത്തുകാർക്ക് മോഡിഫൈഡ് ബ്ലോക്കും സെമി ബ്ലോക്ക് ഫോർമാറ്റും ഒന്നാണെന്ന് തോന്നാറുണ്ട് പക്ഷേ അവ തമ്മിൽ ഒരു മാറ്റമുണ്ട് പാരഗ്രാഫുകൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ പാരഗ്രാഫുകൾ ഇന്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നതിനു മുമ്പായി ഒരു സ്പേസ് വിടേണ്ടതുണ്ട് അവിടെ വീണ്ടും രണ്ടാമത്തെ പാരഗ്രാഫ് ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇന്റെൻഡ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ പാരഗ്രാഫ് ഇന്റെൻഡ് ചെയ്യുമ്പോൾ അവ മനോഹരമായി തോന്നും തീയതിയും കോംപ്ലിമെന്ററി ക്ലോസും മോഡിഫൈഡ് ബ്ലോക്ക് സ്റ്റൈലിലുള്ളത് പോലെ തന്നെയാണ് ഇൻസൈഡ് അഡ്രസ്സ് ഇടതു മാർജിനിൽ ആണ് എഴുതുന്നത് അപ്പോൾ ഇതെല്ലാമാണ് ഒരു സെമി ബ്ലോക്ക് ഫോർമാറ്റിന്റെ വിശേഷണങ്ങൾ ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് യഥാർത്ഥത്തിൽ ഒരു സ്ഥാപനത്തിന്റെ കത്താണ് ഇവിടെ നിങ്ങൾക്ക് തീയതി കാണാം അവർ തീയതി എഴുതിയിട്ടുള്ളത് വലതുവശത്തോ ഇടതുവശത്തോ അല്ല പകരം ഇവിടെ തീയതി എഴുതിയിട്ടുള്ളത് മധ്യഭാഗത്താണ് സ്ഥാപനത്തിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ ലെറ്റർ ഹെഡ് ഇടതുവശത്തോട് ചേർന്നാണ് അതിനാൽ വ്യത്യസ്ത സ്ഥാപനങ്ങൾക്ക് അവരുടെ കത്തുകൾ എഴുതാനും തയ്യാറാക്കുന്നതിനും വ്യത്യസ്ത രീതികൾ ആണുള്ളത് ഇനി അവർക്ക് അച്ചടിച്ച ഒരെണ്ണമുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ലെറ്റർ ഹെഡിന് താഴെ കത്ത് എഴുതിയാൽ മതി ഇവിടെ ഡേറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇൻസൈഡ് അഡ്രസ് ഇടതുവശത്തോട് ചേർന്നാണെന്നത് കാണാം പേര് എന്തു തന്നെയാണെങ്കിലും ഇവിടെ ഈ വ്യക്തി ഡിയർ സർ എന്നോ ഡിയർ മാഡം എന്നോ എഴുതിയിട്ടില്ല പകരം അദ്ദേഹം ഡിയർ മിസ് ഇന്നയാൾ എന്നാണ് എഴുതിയിട്ടുള്ളത് ഇത് അർത്ഥമാക്കുന്നത് അദ്ദേഹത്തിന് കത്തിൻറെ സ്വീകർത്താവിനെ യഥാർത്ഥത്തിൽ അറിയാമെന്നാണ് അദ്ദേഹത്തിന് കത്തിന്റെ സ്വീകർത്താവിനെ അറിയാം ചില സാഹചര്യങ്ങളിൽ ആളുകൾ അവരുടെ ജെൻഡറിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാവാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ വ്യക്തിയുടെ ആദ്യത്തെ പേര് മാത്രമായിട്ട് എഴുതിയാൽ മതി ഉദാഹരണത്തിന് ഡിയർ റാഹേൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിയർ സ്റ്റെല്ല എന്നോ ഡിയർ സ്റ്റെഫനി എന്നോ എഴുതാം ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അവരുടെ ജെൻഡറിനെ കുറിച്ച് ധാരണ ഇല്ല എന്നാണ് അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ വശം ഡിയർ എന്ന് എഴുതിയതിനു ശേഷം ആദ്യത്തെ പേര് എഴുതുക എന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഓരോ ബിസിനസ് കത്തുകളിലും അവ പ്രതികരണമാണെങ്കിൽ അവ മറുപടി കത്താണെങ്കിൽ അത് താങ്ക്സ് എന്ന് വെച്ചാണ് തുടങ്ങുക ഇവിടെയാണ് നമ്മൾ സൌഹൃദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഓരോ ബിസിനസ്സ് കത്തുകളും സൌഹാർദ്ദപരമായിരിക്കണം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളതെന്നാൽ നമ്മൾ ഒരു കത്തിന് വേണ്ടി നന്ദി എഴുതുകയാണ് ചില ആളുകൾ ഇന്ന തീയതിയിലുള്ള കത്തിനു വേണ്ടി നന്ദി അർപ്പിക്കുന്നു എന്ന രീതിയിൽ എഴുതാറുണ്ട് നിങ്ങൾക്ക് ഞാൻ മുമ്പത്തെ ലക്ച്ചറിൽ സൂചിപ്പിച്ചിട്ടുള്ള രചനാ രീതിയും പിന്തുടരാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റഫറൻസ് നമ്പർ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന തീയതിയിലുള്ള കത്തിന് നന്ദി അർപ്പിക്കുന്നു എന്ന് പരാമർശിച്ചുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് വരാം അത് എന്തു തന്നെയാണെങ്കിലും ഇനി നിങ്ങൾ മറുപടി എഴുതുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് ചില വിവരങ്ങൾ നൽകുകയാണെങ്കിൽ എപ്പോഴും നേരെ പറയുന്നതാണ് ഉചിതം ഞാൻ ഉദ്ദേശിച്ചത് നേരെ വിഷയത്തിലേക്ക് വന്ന് ദയവായി ഇത് കാണുക എൻക്ലോഷർ കാണുക ദയവായി ഇതിനോട് കൂടെ വെച്ചത് കാണുക എന്നിങ്ങനെ എഴുതാം തുടക്കത്തിൽ ഒരുപാട് എഴുതേണ്ട ആവശ്യമില്ല കാരണം ആളുകൾക്ക് അധികം സമയമില്ല മാത്രമല്ല ഇത് ചിലപ്പോൾ അവരെ കൂടുതൽ ആശയക്കുഴപ്പത്തിലുമാക്കാം അതിനാൽ എപ്പോഴും നേരെ വിഷയം അവതരിപ്പിക്കുന്നതാണ് നല്ലത് ഇതിനർത്ഥം നിങ്ങൾ ഇന്ന കാര്യങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്തുക എന്നിങ്ങനെ പ്രത്യേകം പരാമർശിക്കുകയാണ് വേണ്ടത് ഇനി അവസാനത്തെ വരി എല്ലായ്പ്പോഴും സൌഹാർദപരമാവണം ഇത് നിങ്ങൾക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന ബിസിനസ് കത്തുകളുടെ വിവിധതരം ഉദാഹരണങ്ങളിൽ കാണാവുന്നതാണ് ഒരു കാര്യം വീണ്ടും ഊന്നി പറയേണ്ടിവരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് വീണ്ടും എടുത്തുപറയേണ്ടതായിട്ട് വരും ഇത് നിങ്ങളുടെ ആത്മാർത്ഥത മാത്രമല്ല പ്രകടിപ്പിക്കുന്നത് അതേസമയം നിങ്ങളുടെ ബിസിനസ് അവബോധവും ഒരുതരത്തിൽ കാണിക്കുന്നുണ്ട് കാരണം ബിസിനസ്സ് കത്തുകൾക്കും ഒരുതരം സൌഹാർദ്ദപരമായ സമീപനം ഉണ്ടായിരിക്കണം അതിനെ നമ്മൾ യു സമീപനം എന്നാണ് വിളിക്കാർ ഒടുവിൽ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ അവസാനം കാണാം ഞാൻ ഉദ്ദേശിച്ചത് കോംപ്ലിമെന്ററി ക്ലോസാണ് ലീവ് ടേക്കിങ്ങിനു മുമ്പായിട്ട് ഇതിനെ നമുക്ക് ലീവ് ടേക്കിങ് എന്നും വിളിക്കാവുന്നതാണ് അദ്ദേഹം സിൻസിയർലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇടതുവശത്തോ വലതുവശത്തോ അല്ല അതിനിടയിലാണ് പക്ഷേ കോംപ്ലിമെന്ററി ക്ലോസും ഡേറ്റ് ലൈനും അലൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം ചില സമയങ്ങളിൽ അവിടെ എൻക്ലോഷറുകളും വേണം അതിനാൽ എൻക്ലോസ് ചെയ്ത എൻക്ലോഷറുകളുടെ നമ്പറുകളും എഴുതുക അടുത്തത് സിംപ്ലിഫൈഡ് ഫോർമാറ്റാണ് സിംപ്ലിഫൈഡ് ഫോർമാറ്റിൽ കത്തെഴുതുന്നയാൾ സ്വീകർത്താവിൻറെ പദവിക്കും ജെൻഡറിനുമൊന്നും പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഞാൻ പറഞ്ഞതു പോലെ നിങ്ങൾക്ക് ഡിയർ സ്റ്റെഫനി ഡിയർ സ്റ്റെല്ല എന്നതുപോലെ എഴുതാം പക്ഷേ തീയതിയും കോംപ്ലിമെന്ററി ക്ലോസും ഒപ്പും വലതുവശത്തെ മാർജിനിലാണ് സ്ഥാനം നൽകേണ്ടത് മിക്ക സ്ഥാപനങ്ങൾക്കും അവർക്ക് അതിനുള്ള സൌകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള കത്ത് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നതെന്തെന്നാൽ ചില സന്ദർഭങ്ങളിൽ സിംപ്ലിഫൈഡ് ഫോർമാറ്റ് ആണ് തിരഞ്ഞെടുക്കുക ചില സന്ദർഭങ്ങളിൽ അവർ ഒരു അറ്റൻഷൻ ലൈനും പരാമർശിക്കും അറ്റെൻഷൻ ലൈനും വലിയ അക്ഷരങ്ങളിൽ ആണ് എഴുതുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് എഴുതുന്നതും നിങ്ങൾക്ക് സ്ഥാപനത്തിലെ ഒരു പ്രത്യേക വ്യക്തിയുടെ ശ്രദ്ധ വേണമെന്നുമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ചാർട്ടേർഡ് അക്കൌണ്ടന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ഓഫീസർ അപ്പോൾ അവിടെ നിങ്ങൾ അറ്റൻഷൻ ലൈൻ നൽകേണ്ടതുണ്ട് എന്നിട്ട് ഒരു കോളം ഇടുകയും ഫിനാൻസ് ഓഫീസർ എന്നോ രജിസ്ട്രാർ എന്നോ എഴുതുക സ്വാഭാവികമായും ഇതൊരു സ്ഥാപനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നേരെ ബന്ധപ്പെട്ട ആൾക്ക് അയക്കപ്പെടും അതിനാൽ ഇത് വളരെ പ്രധാനമാണ് ഇവിടെ നിങ്ങൾക്കൊരു സിംപ്ലിഫൈഡ് കത്തിന്റെ ഒരു ഉദാഹരണം കാണാം ഒരു സിംപ്ലിഫൈഡ് ലെറ്ററിൽ സല്യൂട്ടേഷൻ നൽകണം എന്ന് നിർബന്ധമില്ല ഇൻസൈഡ് അഡ്രസ്സ് എഴുതി കൊണ്ട് അല്ലെങ്കിൽ സ്വീകർത്താവിൻറെ പദവി എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് നേരെ കത്ത് ആരംഭിക്കാവുന്നതാണ് പക്ഷേ ഒരു സബ്ജക്റ്റ് നിങ്ങൾ നൽകണം ഇവിടെ നിങ്ങൾക്ക് ലെറ്റർ ഹെഡിന് ശേഷം തീയതിയും മറ്റു കാര്യങ്ങളും എഴുതിയത് കാണാം തീയതി ഇവിടെ വലതു വശത്താണ് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇവിടെ ആളുടെ പദവി മാത്രമാണ് നൽകിയിട്ടുള്ളത് റീജിയണൽ ടൂറിസ്റ്റ് ഓഫീസർ അതിനുതാഴെയായിട്ട് സല്യൂട്ടേഷന്റെ പരാമർശങ്ങളൊന്നും തന്നെയില്ല ഇതിനർത്ഥം ഇത് വേദനിപ്പിക്കുന്നതാണെന്നല്ല ചിലപ്പോൾ ആളുകൾക്ക് അവ വേദനിപ്പിക്കുന്നതായിട്ടോ അപമാനിക്കുന്നതായിട്ടോ തോന്നാം പക്ഷേ കാര്യമതല്ല ഇത് യഥാർത്ഥത്തിൽ കത്തെഴുതുന്നയാൾക്ക് ജെൻഡറിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഔദ്യോഗികമായത് കൊണ്ടാണ് അദ്ദേഹം ഔദ്യോഗിക ബിസിനസിലേക്ക് വരുകയും അദ്ദേഹം റിഗാർഡിങ് എക്സ്കേർഷൻ എന്ന് എഴുതുകയും ചെയ്തത് റിഗാർഡിംഗ് എക്സ്കേർഷൻ എന്നത് യഥാർത്ഥത്തിൽ സബ്ജക്ട് ആണ് പിന്നീട് നേരെ അദ്ദേഹം കത്ത് തുടങ്ങുകയും വിഷയം എന്താണെങ്കിലും അത് ചർച്ച ചെയ്യുകയും ചെയ്തു ഒടുവിൽ ഇത്തരം കത്തുകളിൽ ലീവ് ടേക്കിങ് പരാമർശിക്കുകയോ കോംപ്ലിമെന്ററി ക്ലോസ് ചേർക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല പകരം നേരെ മെമ്മോയിലുള്ളത് പോലെ മെമ്മോയുടെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇത് ഒരു മെമ്മോയിലുള്ളത് പോലെ തന്നെയാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് മാത്രമായിട്ടാണ് എഴുതാറ് ഞാനുദ്ദേശിച്ചത് എഴുത്തുകാരന്റെ പേര് അത് എന്ത് തന്നെയാണെങ്കിലും അത് എഴുതുന്നത് വലതു വശത്താണ് ഡേറ്റ് ലൈനും സിഗ്നേച്ചർ ലൈനും പരസ്പരം അലൈൻ ചെയ്തുകൊണ്ടാണുള്ളത് മറ്റുള്ളവയെല്ലാം ഓപ്പൺ പങ്ച്ചുവേഷനിലാവും പക്ഷേ ഇൻസൈഡ് അഡ്രസ്സിൽ ഓപ്പൺ പങ്ച്ചുവേഷൻ ഉണ്ടായിരിക്കില്ല ഇവിടെ സബ്ജക്റ്റ് ലൈനിനെ കുറിച്ചും അതുപോലെ കോംപ്ലിമെന്ററി ക്ലോസിനെ കുറിച്ചും പരാമർശങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഇതാണ് കത്തെഴുതുന്നതിന്റെ സിംപ്ലിഫൈഡ് ഫോർമാറ്റ് ഇതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തതിനാൽ കൂടുതൽ സ്ഥാപനങ്ങളും ഇത് എളുപ്പമായി കാണുന്നു പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാൽ നിങ്ങൾ ഒരു കത്ത് എഴുതി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഭാഗമായിട്ടുള്ള സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന പ്രവണത സ്ഥാപനത്തിന്റെ രീതി പിന്തുടരുക എന്നതാണ് കത്തിന്റെ ഘടന മനസ്സിലാക്കിയ നിങ്ങൾക്ക് ഇതിന്റെ ശൈലി എന്തായിരിക്കുമെന്നത് അറിയാനും കൌതുകം കാണും ഒരു കത്ത് പ്രത്യേകിച്ചും ഒരു ബിസിനസ് കത്ത് മറ്റുള്ള ബിസിനസ് രചനകളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എങ്കിലും മറ്റു ബിസിനസ് രചനകളിൽ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേക മേഖലയെയോ വിഷയത്തേയോ പ്രശ്നത്തേയോ ആശ്രയിച്ചിരിക്കും എന്ന് നിങ്ങൾക്ക് കാണാനാകും പക്ഷേ ഒരു കത്തിൽ പ്രശ്നങ്ങൾ പലതാണെങ്കിലും കൃത്യമായി പാലിക്കപ്പെടേണ്ടത് വിനയവും സൌഹൃദവുമാണ് അതിനു വേണ്ടി ഒരു ഭാഷ കൈക്കൊള്ളേണ്ടതുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ സൌഹാർദ്ദപരമായ സമീപനമുള്ള ഭാഷ പാലിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് വായനക്കാരന് അനുകൂലമായ സമീപനമാണ് വായനക്കാരന് അനുകൂലമായ സമീപനം എന്നതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തന്നെ വായനക്കാരന്റെ സ്ഥാനത്ത് കരുതുക എന്നതാണ് നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ വായനക്കാരുടെ സ്ഥാനത്ത് വിചാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു കത്ത് എഴുതുന്നതിനുമുമ്പായി ഒരുപാട് ആസൂത്രണങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഒരു കത്ത് നിങ്ങളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നത് അത് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ആണെങ്കിൽപോലും അതുകൊണ്ടാണ് ഒരു കത്ത് വായനക്കാരന് അനുകൂലമാകണം എന്ന് പറയുന്നത് അത് വായനക്കാരന് അനുകൂലമാക്കുന്നതിനു വേണ്ടി അത് ഒരു യൂ സമീപനം പാലിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ചില സമയങ്ങളിൽ നിങ്ങളെഴുതിയ ഒരു പ്രത്യേക വരി അതേ കത്ത് നിങ്ങൾക്ക് തന്നെ കിട്ടുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് അത്ര നല്ലതായിട്ടു തോന്നുകയില്ല ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ മെച്ചപ്പെടുത്താനും അതൊരു സൌഹാർദ്ദപരമായ സമീപനമുള്ള ഭാഷയായി മാറ്റാനും അവസരം നൽകുന്നു നമ്മൾ വിനയത്തെക്കുറിച്ചും പരിഗണനയെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുള്ളതാണ് വിനയമെങ്ങനെ പാലിക്കണമെന്ന് നിങ്ങൾക്കറിയാം ഇനി നിങ്ങൾ ഒരു കത്തെഴുതുമ്പോൾ ഏതൊരു ബിസിനസ് കത്തിലും വിനയത്തിന്റെ ആവശ്യകതയാണ് നമ്മളൊരു നന്ദി വാചകം വെച്ച് തുടങ്ങുക എന്നുള്ളത് അതിനാൽ ഒരു നന്ദി വാചകം വെച്ച് തുടങ്ങുക ഒപ്പം മുമ്പത്തെ കത്തിനെ പരാമർശിക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് ഒരു നിശ്ചിത തീയതിയിലുള്ള ഒരു കത്തിന് നിങ്ങൾ നന്ദി അർപ്പിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കുകയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വായനക്കാരനെ അല്ലെങ്കിൽ സ്വീകർത്താവിനെ നിങ്ങൾ തമ്മിലുള്ള മുമ്പത്തെ കത്തിടപാടിനെ ഓർമിപ്പിക്കുകയാണ് അതിനാൽ ഒരുതരം വിനയം പാലിക്കുകയും പരിഗണന നൽകുകയും ചെയ്യുക ഇനി പരിഗണനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധാലുക്കളാവേണ്ടത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല പക്ഷേ കത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചും വ്യാപ്തിയെക്കുറിച്ചുമെല്ലാമാണ് ഇക്കാലത്ത് ആരും ഒരു ദൈർഘ്യമേറിയ കത്ത് ഇഷ്ടപ്പെടുകയില്ല ജോലി സമയങ്ങളിൽ ആണെങ്കിലും അല്ലെങ്കിലും ആർക്കും ഒരു ദൈർഘ്യമേറിയ കത്ത് വായിക്കാൻ വേണ്ടത്ര സമയം കാണുകയില്ല അതിനാൽ ഒരു സൌഹാർദ്ദപരമായ ഭാഷയോ വിനീതമായ സമീപനമോ ഉറപ്പാക്കുന്നതിലൂടെ മാത്രമല്ല വിഷയത്തിലൂന്നി പറയുന്നതിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പരിഗണന പ്രകടിപ്പിക്കാനാകും പ്രത്യേകിച്ചും ബിസിനസ് കത്തുകളിൽ നിങ്ങൾ ഈ ഒരു പെരുമാറ്റരീതി പാലിക്കേണ്ടതുണ്ട് അതായത് വ്യക്തതയോടു കൂടി വിഷയത്തിലൂന്നി കൊണ്ട് പറയുക ചില സമയങ്ങളിൽ നിങ്ങൾ ചില സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അവ നേരായ രീതിയിലാവില്ല നിങ്ങളിലേക്ക് എത്തുക അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്താൻ വൈകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാനോ ഇടയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാനാണ് പ്രവണതകളേറെ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് നമുക്കെല്ലാം ദേഷ്യം വരും പക്ഷേ ഓർക്കുക നിങ്ങൾ ദേഷ്യത്തിൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകാം അതുകൊണ്ടാണ് നിങ്ങൾ സ്വീകർത്താവിന്റെ സ്ഥാനത്ത് നിങ്ങളെ വിചാരിച്ചുകൊണ്ട് എഴുതേണ്ടത് കൂടാതെ ദേഷ്യം പിടിച്ച് എഴുതിയ അതേ കത്ത് നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതും ആലോചിക്കുക അതിനാൽ ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും മികച്ച വഴി വായനക്കാരനെ അധിക്ഷേപിക്കാതിരിക്കുക എന്നതാണ് ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നെന്നും അയാൾക്ക് ഒരു കംപ്ലെയ്ന്റ് ലെറ്റർ ലഭിച്ചു എന്നും കരുതുക ആ കംപ്ലെയ്ന്റ് ലെറ്ററിന്റെ ഭാഷ വളരെ വൈരാഗ്യം നിറഞ്ഞതാകും അതിൽ മുഴുവനും ആരോപണങ്ങളും അതിന്റെ ഭാഷ വളരെ വികാരതീവ്രമായതും തിരഞ്ഞെടുത്ത വാക്കുകൾ നിഷ്ഠൂരവുമായിരിക്കും അതിനാൽ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ വായനക്കാരനെ കുറ്റപ്പെടുത്താതെ നിങ്ങൾക്ക് സ്വയം സുരക്ഷിതമായ സ്ഥാനത്ത് തുടരാം വായനക്കാരനെ കുറ്റപ്പെടുത്തരുത് എന്ന് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും എഴുതുമ്പോൾ ഒരുപാട് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തന്നെ നിയന്ത്രിക്കുക ഉദാഹരണത്തിന് ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ പെയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നഷ്ടപ്പെടുമെന്ന് ആരെങ്കിലും എഴുതുകയാണെങ്കിൽ ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും ഇത്തരത്തിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ അവിടെ സൌഹാർദ്ദത നിലനിർത്തുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം നിങ്ങൾ എഴുതാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച വഴി നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതിയത് വാസ്തവമായിരിക്കാം പക്ഷേ അത് അവരെ വേദനിപ്പിച്ചേക്കാം അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമീപനം മാറ്റിക്കൊണ്ട് ഇന്ന പേയ്മെന്റ് കൃത്യസമയത്ത് അടക്കാൻ നിങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാം നിങ്ങൾ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷേ വ്യത്യസ്തമായ ഒരു ഭാഷയിലാണ് ഞങ്ങളുടെ ഉപഭോക്താക്കളുമായി നിരന്തരമായി ബന്ധം പുലർത്തുന്നതിന് ഞങ്ങൾ സമയബന്ധിതമായി പണം അടക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു പിന്നെയുള്ളത് നിങ്ങൾ വളരെ ചുരുക്കി പറയുക എന്നുള്ളതാണ് പക്ഷേ ചുരുക്കി പറയുന്നതിന് വേണ്ടി ഉള്ളടക്കത്തിൽ വിട്ടുവീഴ്ച നടത്തേണ്ടതില്ല ചുരുക്കി പറയുക പക്ഷേ അതേസമയം സാധാരണ രീതിയിൽ തന്നെയാവുക നിങ്ങളുടെ അവതരണം വളരെ ലളിതവുമായിരിക്കണം ഞാൻ ലളിതം എന്നതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ ലളിതമായിരിക്കണം അവ നിർദിഷ്ടവുമായിരിക്കണം ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു പരാതി കത്ത് എഴുതുകയാണെന്നോ അല്ലെങ്കിൽ ഒരു ഓർഡർ കത്തെഴുതുകയാണെന്നോ കരുതുക പക്ഷേ നിങ്ങൾ ഏതു തരം മോഡലാണെന്നോ മേക്കപ്പ് ആണെന്നോ ഡിസൈനാണെന്നോ കളറാണെന്നോ എന്നതിനെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ചിന്താശൂന്യരാണെന്ന് മാത്രമല്ല നിങ്ങൾ വിശിഷ്ടവുമാകുന്നില്ല വിശിഷ്ട കത്തുകൾ വേഗത്തിൽ പ്രതികരിക്കപ്പെടും കൂടാതെ നിങ്ങൾ ഐ എന്നതിന്റെയും വി എന്നതിന്റെയും ശരിയായ ഉപയോഗത്തെ വേർതിരിച്ചറിയണം ഒരു സ്ഥാപനത്തിൽ നിന്ന് കത്ത് തയ്യാറാക്കുന്ന ആളും ആ കത്തിനോട് പ്രതികരിക്കുന്ന ആളും നിങ്ങളെ പോലെയും എന്നെ പോലെയും ഉള്ള ആളുകളാണ് അതിനാൽ ഐ എന്നതും യു എന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് എഴുതുമ്പോൾ നിങ്ങൾ വി എന്ന് എഴുതണം എന്നാൽ നിങ്ങൾ കൂടുതൽ അനൌപചാരികമാകേണ്ട സന്ദർഭങ്ങളുണ്ട് ഒരു മാനേജർ എഴുതുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഐ എന്നെഴുതും പക്ഷേ അദ്ദേഹം എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ സ്ഥാപനത്തെ പ്രതിനിധീകരിക്കുന്നു എപ്പോഴും നിങ്ങളുടെ എല്ലാ വാക്യങ്ങളും ആക്ടീവ് വോയ്സിൽ എഴുതുന്നതാണ് നല്ലത് നിങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കരുത് നിങ്ങൾ അവർക്ക് ഒരു നല്ല വാർത്തയാണ് നൽകുന്നതെങ്കിൽ ആക്ടീവ് വോയ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലതെങ്കിലും പക്ഷേ ചിലപ്പോൾ ഇൻഡയറക്ട് ആയിട്ട് ഒരു കത്ത് എഴുതണം എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരു പാസീവ് രൂപത്തിലേക്ക് പോകേണ്ടിവരും വളരെ അൺപ്രൊഫഷണലായി തോന്നിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങൾക്ക് നൽകാനാകും ഉദാഹരണത്തിന് ചില വാക്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില കത്തുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇവ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ ഇത്തരം ഭാഷ ഒഴിവാക്കാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും ഉദാഹരണത്തിന് 'നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ വാറണ്ടി ഇതിനകം എക്സ്പെയർ ആയിട്ടുണ്ട് നിങ്ങളുടെ മെഷീനിൽ നടത്തുന്ന ഏതുതരത്തിലുള്ള സർവീസും പെയ്മെന്റ് അടിസ്ഥാനത്തിലായിരിക്കും നൽകുക' എന്നതിന്റെ ഭാഷ ശ്രദ്ധിക്കുക ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ ഉപഭോക്താക്കളുമായി ഒരു നല്ല ബന്ധം നിലനിർത്താനാണ് ശ്രമിക്കുക എന്ന് നമ്മൾ പറയാറുള്ളതിനാൽ ഇത്തരം ഒരു ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒരു പക്ഷേ അവർക്ക് വളരെ അപമാനകരമായിരിക്കും ഇത് പരിഷ്കരിച്ച് വളരെ നല്ല ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാനാകും നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിര ഉപഭോക്താക്കളിൽ ഒരാളായി വിലയേറിയ ഉപഭോക്താക്കളിൽ ഒരാളായി സ്വാഗതം ചെയ്യുന്നു എന്നാൽ അടുത്ത വാചകം കാലാവധി അവസാനിച്ച ചരക്കുകളെ കുറിച്ചും തുകയെ കുറിച്ചും അല്ലെങ്കിൽ ഇത്ര തുക അടക്കണമെന്നും നിങ്ങൾക്ക് പരാമർശിക്കാം അല്ലെങ്കിൽ വാറണ്ടി കാലയളവിന് ശേഷവും സർവീസ് പ്രതീക്ഷിക്കുന്ന ആളുകൾ സർവീസിനായി പണം നൽകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാം ഇവിടെ ഇത് പോസിറ്റീവാണ് ഇവിടെ നിങ്ങൾ 'അത് എക്സ്പെയറായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുകയില്ല' എന്നല്ല പറയുന്നത് ഇനി അടുത്ത വാചകം ശ്രദ്ധിക്കൂ ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സെറോക്സ് മെഷീൻ അയക്കാൻ സാധിക്കും എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഭാവിയിലും ഞങ്ങളുടെ ഉപഭോക്താക്കളിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെയും ഇതിൽ മാറ്റം വരുത്തി നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പറയാവുന്നതാണ് ദയവായി നിങ്ങളുടെ പുതിയ സെറോക്സ് മെഷീൻ കണ്ടെത്തൂ ഞങ്ങളുടെ വിലയേറിയ ഉപഭോക്താക്കളിൽ നിന്ന് ഓർഡറുകൾ ഭാവിയിലും സ്വീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങൾ ഒരു ബിസിനസ് കത്ത് എഴുതുമ്പോൾ നിങ്ങൾ ഒരു തരം ബന്ധം നിലനിർത്തുകയാണ് ഇനി നിങ്ങൾക്ക് ഇതു പോലെയുള്ളൊരു ഉള്ളടക്കമുള്ള കത്ത് ലഭിക്കുകയാണെങ്കിൽ 'ഞങ്ങൾക്ക് ആവശ്യമായ യോഗ്യതകൾ നിങ്ങൾ നിറവേറ്റാത്തതിനാൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കാനാവില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്തവർഷം ശ്രമിച്ചു കൂടാ ഈ ഭാഷ വളരെ അപമാനകരമാണ് അതിനാൽ ഇത്തരം വാക്യങ്ങൾ ആളുകൾ കേൾക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്താൻ ഇതേ വാക്യം നിങ്ങൾക്ക് പരിഷ്കരിച്ച് മികച്ചയൊന്നാക്കാനും ഒരു പോസിറ്റീവ് ഭാഷ ഉൾപ്പെടുത്താനും കഴിയും നിങ്ങൾക്ക് ഇങ്ങനെ പറയാം എല്ലാ വിദ്യാഭ്യാസ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പരിപൂർണ്ണമായ അപേക്ഷ ഞങ്ങളുടെ സ്ഥാപനം പ്രതീക്ഷിക്കുന്നു വിശദമായ ഒരു ബയോഡാറ്റ സമർപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ ഭാഷ വളരെ മര്യാദ ഉള്ളതായി തോന്നുന്നു വേറെ കുറച്ചെണ്ണം കൂടിയുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വിലമതിക്കപ്പെട്ട ഉപഭോക്താവ് എന്ന നിലയിൽ ഞങ്ങളുടെ ഗുണനിലവാര നിയന്ത്രണ വിഭാഗത്തിൽ ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗതാഗത സമയത്ത് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല ഇനി ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നിങ്ങൾ ഇത്തരമൊരു ഭാഷയിൽ സംസാരിക്കാനും എഴുതാനും ഒരിക്കലും ശ്രമിക്കരുത് നിങ്ങൾക്കെപ്പോഴും ഇങ്ങനെ പറയാവുന്നതാണ് ഞങ്ങളുടെ ഗുണനിലവാര നിയന്ത്രണ വിഭാഗത്തിൽ ഞങ്ങൾ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഗതാഗത സമയത്തെ കാര്യങ്ങൾ ഞങ്ങളുടെ അധീനതക്കപ്പുറത്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 'ഗതാഗത സമയത്ത് പിഴവുകൾ സംഭവിച്ചേക്കാം നിങ്ങൾക്ക് സർവീസുകൾ നൽകാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്' എന്നെഴുതാവുന്നതാണ് നിങ്ങൾക്ക് ഉപഭോക്താക്കളെ നിലനിർത്താൻ നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം കത്താണ് അത് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഫോർമാറ്റ് പാലിച്ചുകൊണ്ട് അതായത് സൌഹാർദ്ദപരമായ ഭാഷയും ബിസിനസിന് യോഗ്യമായ ഭാഷയും ഉപയോഗിച്ച് കത്ത് തയ്യാറാക്കുന്ന നയം പാലിച്ചുകൊണ്ട് നിങ്ങൾ ഒരു തരം സൌഹാർദ്ദത കാത്തുസൂക്ഷിക്കുകയാണെങ്കിൽ സ്വർണ്ണലിപികളിൽ നിങ്ങൾക്ക് ഒപ്പ് ഇടാവുന്നതാണ്